ദുരിതമോചനത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാം സതീഷ് ടി റൂർക്കി യിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് തമിഴ്നാട്ടിലെ സുനാമി പുനർനിർമ്മാണത്തിന്റെ തുടർ പ്രഭാഷണമാണിത് അതായത് രണ്ടാം ഭാഗം ഇത് കണ്ടെത്തലുകളെക്കുറിച്ചാണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ വികസിപ്പിച്ചെടുത്ത മെതോഡുകളെ കുറിച്ചും സമീപനത്തെ കുറിച്ചും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ മൂന്ന് കേസ് സ്റ്റഡീസ് തിരഞ്ഞെടുത്തു അതായത് മൂന്ന് ഗ്രാമങ്ങൾഒന്ന് സൌത്തിലെ കന്യാകുമാരിക്കടുത്തുള്ള കോവളം കാരയ്ക്കലിനും നാഗപട്ടണത്തിനും സമീപOcuമുള്ള തരംഗമ്പാടി ഒരു ദളിത് ഗ്രാമ ദ്വീപായ ലൈറ്റ്ഹൌസ് കുപ്പം ഇവിടെയാണ് ഞാൻ ചില എത്നോഗ്രാഫിക് മെത്തോഡുകൾ ഉപയോഗിച്ചത് ഒരു മത്സ്യത്തൊഴിലാളിയായി ഞാൻ അവിടെ താമസിച്ചു വിവിധ സമുദായങ്ങളുമായി ഇടപഴകി മത്സ്യബന്ധനത്തിനായി ഞാൻ അവരുടെ കൂടെ കടലിൽ പോകാറുണ്ടായിരുന്നു ഞാൻ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്തത് ആ ഗവേഷണത്തിന്റെ ആദ്യത്തെ വെല്ലുവിളി എന്തെന്നാൽഗൂഗിൾ എർത്ത് പ്രാരംഭ ഘട്ടത്തിലായിരുന്ന 2005 2006 കാലഘട്ടത്തിൽ ആണ് അത് നടക്കുന്നത് എന്നതാണ് അതിനാൽ എനിക്ക് മാപ്പുകളൊന്നും ലഭിക്കുന്നില്ലായിരുന്നു ഗൂഗിൾ എർത്ത് നൽകുന്നതെന്തും പിന്നെ ഭൌതിക നീരീക്ഷണങ്ങളും വെച്ച് ഈ മാപ്പുകൾ ഡിജിറ്റൈസ് ചെയ്യണം അങ്ങനെ ഞാൻ ഈ മാപ്പുകൾ വികസിപ്പിച്ചെടുത്തു നിങ്ങൾ കോവളം ഭൂപടം നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഇതാണ് കടലും പിന്നെ ഇന്ത്യൻ മഹാസമുദ്രവും നിങ്ങൾക്ക് ഇവിടെ ഉപ്പ് ഖനികളുമുണ്ട് ഇതാണ് ഗ്രാമത്തിന്റെ പ്രധാന ഹൃദയം ഇതാണ് പ്രധാന ഗ്രാമകേന്ദ്രം തുടർന്ന് ഈ സുനാമിയിൽ 88 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഉടൻ തന്നെ സർക്കാർ ഈ 88 വീടുകളുടെ വിലയിരുത്തൽ നടത്തി കൂടാതെ CRZ ചട്ടങ്ങൾ കാരണം അവർക്ക് ബദൽ സ്ഥാനം കണ്ടെത്താൻ അവർ തീരുമാനിച്ചു അതിനാൽ അവർ DC നഗർ ഫേസിലും SISU നഗറിലും കുറച്ച് സ്ഥലം എടുത്ത് ഇത് സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തി 88 ഓളം വീടുകൾ നൽകി അതിനുശേഷം കൂടുതൽ സവിശേഷമായ ഒരു ഗ്രാമം നിർമ്മിക്കുന്നതിനും ദുരന്തത്തിന് മുമ്പുള്ള പരാധീനതകൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു അവസരമായി നമുക്ക് എന്തുകൊണ്ട് ഇത് എടുത്തുകൂടാ എന്ന് സഭ തിരിച്ചറിഞ്ഞു പള്ളി കമ്മ്യൂണിറ്റികളെ കൂട്ടിഅവർ കുറച്ച് പണം പിരിച്ചെടുത്തു വേറെ വേറെ പാഴ്സലുകളിലായി കുറച്ച് സ്ഥലം കൂടി വാങ്ങി ഇവ രണ്ടും പ്രാക്സിസ് നഗർ ആണ് പിന്നീട് അത് ഭേദഗതി ചെയ്തുCRZ നിയന്ത്രണം കൂടുതൽ ഭേദഗതി ചെയ്തപ്പോൾ അവർ കുറച്ച് ഭൂമി കൂടി വാങ്ങി ഇവിടെയാണ് കമ്മ്യൂണിറ്റികൾ കുറച്ച് പണം നിക്ഷേപിച്ചത് എന്നാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവർ നേരത്തെ വീടുണ്ടായിരുന്നവരാണ് എന്നാൽ ഇപ്പോൾ അവർക്ക് സർക്കാർ സഹായം വഴി വീട് നൽകി അത് പൂർണ്ണമായും ഭൂമിയും വീടും സൌജന്യമാണ് ഇപ്പോൾ ഈ ആളുകൾ 10 വർഷത്തേക്ക് പാട്ടത്തിനാണ്പിന്നെ അവർക്ക് പട്ടയം ലഭിക്കും ഇവർ സ്വന്തം പണം മുടക്കി ഭൂമി വാങ്ങിയവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് പട്ടയം തുടക്കം മുതലേ ലഭിച്ചിട്ടുണ്ട് സമ്പന്നമായ പരമ്പരാഗത വീടുകൾ പോലെ ഇതെല്ലാം മുമ്പ് കൂട്ടുകുടുംബങ്ങളായിരുന്നു നാനൂറ് കുടുംബങ്ങൾ മാത്രമുണ്ടായിരുന്ന ഗ്രാമംസുനാമിക്ക് ശേഷം വിശാലമായ ഗ്രാമം ഉണ്ടാക്കാൻ അവർ അവസരം മുതലെടുത്തു വിശാലമായ ഗ്രാമം നിർമ്മിക്കാനുള്ള പ്രക്രിയയിൽ 400 ആയിരമായി വീടുകൾ അതായത് കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾ ആയി മാറി അങ്ങനെ അച്ഛനും അമ്മയും നഗരം മുഴുവൻ പഴയ പട്ടണ പ്രദേശങ്ങളിലും പഴയ ഗ്രാമ പ്രദേശങ്ങളിലും താമസിക്കാൻ തുടങ്ങി സഹോദരങ്ങളും സഹോദരിമാരും പല സ്ഥലങ്ങളിൽ ആയി അവർക്കെല്ലാം ലഭിച്ച ഭൂമിയുടെ സാധ്യതയും ലോട്ടറി അലോട്ട്മെന്റും അനുസരിച്ചു അതിനാൽ നിങ്ങൾ പരമ്പരാഗത ഭവനം നോക്കിയാൽ വാസ്തുവിദ്യയുടെ പരമ്പരാഗത ഘടകങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ അവർക്ക് വലയുടെ ചില സംഭരണികൾ ഉണ്ട് അവർ വല നെയ്ത്ത് രീതികൾ ചെയ്യുന്നു അവർ മത്സ്യത്തെ ഉണക്കുകയാണ് കൂടാതെ കൂടുതൽ സ്വകാര്യത ചിഹ്നങ്ങളുള്ള പരമ്പരാഗത ഘടകങ്ങളുംഅത് ഒരു ജനലും വാതിലും ആയി പ്രവർത്തിക്കും കൂടാതെ കാലാവസ്ഥാപരമായി തീരദേശം ആയതിനാൽ വീട്ടിലും ക്ലസ്റ്ററുകളിലും സുഖപ്രദമായ താമസിക്കാൻ സാധിക്കുന്നു വളരെ ഇടുങ്ങിയതും വളരെ ഓർഗാനികുമായ വികസനം ആ പ്രത്യേക ഗ്രാമങ്ങളിൽ സംഭവിച്ചു തീർച്ചയായും ദുരന്ത പ്രശ്നങ്ങൾക്ക് മുമ്പ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചഅയൽക്കാരുമായുള്ള ചില പ്രശ്നങ്ങൾ ചില ജല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സേവന പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും അതേസമയം തന്നെ അവിടെ വളരെ അടുപ്പം ഉള്ള കുടുംബങ്ങളും ഉണ്ടായിരുന്നു റിക്കവറി പ്രക്രിയയിൽ പുനർനിർമ്മാണ ഘട്ടത്തിൽ അവർ ഈ പുതിയ ഭൂമി തിരിച്ചറിഞ്ഞപ്പോൾ അതിനാൽ സർക്കാരും അതിൽ പ്രവർത്തിച്ച NGO കളും ഉൾപ്പെടെയുള്ളവർ യഥാർത്ഥത്തിൽ ഒരു തരം ഗ്രിഡ് ഇരുമ്പ് പാറ്റേണുകൾ നിർദ്ദേശിച്ചു വളരെ ലീനിയർ നെറ്റ്വർക്കുകളുംഇവിടെ അവർ ലോട്ടറി സമീപനങ്ങളും സ്വീകരിച്ചു ഇവിടെ ഒരു ലോട്ടറി സമീപനം എടുക്കുമ്പോൾ നിങ്ങളുടെ അയൽക്കാരൻ ആരാണെന്നും നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നും ആർക്കും അറിയില്ല ചില അയൽപക്കബന്ധങ്ങളെ ഇത് യഥാർത്ഥത്തിൽ തകർത്തു ക്രമേണ ആളുകൾ മതിലുകൾ നിർമ്മിക്കാൻ തുടങ്ങിതുടക്കത്തിൽ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ രണ്ട് വർഷം അവർക്ക് ശരിയായ ജലവിതരണം ഇല്ലായിരുന്നു ക്രമേണ കാര്യങ്ങൾ വികസിച്ചു ചില ആളുകൾ വീട്ടുമുറ്റത്ത് അടുക്കളകൾ വികസിപ്പിക്കാൻ തുടങ്ങി കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പാകം ചെയ്യുന്നു അതിനാൽ അടുക്കള പുറത്തായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അകത്ത് ഒരു അടുക്കളയുണ്ടായിട്ടും പുറത്തും അടുക്കള ഉണ്ടായിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു അതിനാൽ ഈ പാറ്റേണുകൾ സമൂഹത്തിൽ എന്ത് തരത്തിൽ ഉള്ള സ്വാധീനങ്ങൾ ആണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് സുനാമിക്ക് മുമ്പ് എല്ലാം എംഡിആറിന്സമീപമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ തുറമുഖമുണ്ട് നിങ്ങൾക്ക് ഇവിടെ ലേല സ്ഥലമുണ്ട് നിങ്ങൾക്ക് വില്ലേജ് സ്ക്വയർ ഉണ്ട്ഇവിടെ എല്ലാം നഗരത്തിനടുത്താണ് എന്നാൽ ഇപ്പോൾ സുനാമിക്ക് ശേഷം അവർ രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് താമസം മാറ്റണംഅതായത് ഏകദേശം 2 കിലോമീറ്റർ നടക്കണം നിങ്ങളും ഞാനും ഒരു ലാപ്ടോപ്പുമായി ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ നടക്കുന്നത് പോലെ അല്ല ഇത് അവർ നടക്കുന്നത് ഒരു ഫിഷ് ഗിയർ വല ഡീസൽ ശേഖരിച്ച മത്സ്യം മറ്റേതെങ്കിലും ഉപകരണങ്ങൾ എന്നിവയൊക്കെ എടുത്താണ് അവർ രാവിലെ 900 മുതൽ 500 വരെ ഓഫീസിലേക്ക് പോകുന്നത് പോലെയല്ലചിലപ്പോൾ മീൻപിടിത്തത്തിന് അനുസരിച്ചു അവർ രാവിലെ നാല് മണിക്ക് യാത്ര ചെയ്യുന്നു പിന്നെ അവർ രാവിലെ എട്ട് മണിക്ക് മടങ്ങിയെത്തുന്നു വീണ്ടും 1100 ന് പോകും അവർ 200 ന് തിരിച്ചെത്തിയേക്കാം അവർ വൈകുന്നേരം 500 ന് പോകാം അതിനാൽ അത് അവർക്ക് ലഭിക്കുന്ന മത്സ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഓരോ തവണയും രണ്ട് കിലോമീറ്റർ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓരോരുത്തർക്കും പള്ളി മധ്യഭാഗത്താണ് ഗ്രാമപള്ളി ഇടവക പള്ളി കൂടാതെ മുതിർന്ന ആളുകൾക്ക് പോലും പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമസഭകളിൽ പങ്കെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിയിരിക്കുന്നു ഏതെങ്കിലും ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ ക്രിസ്മസ് ഒരു പ്രധാന ഉത്സവമായിരുന്നു ഓരോ തെരുവിലും അത് ഒരു ആഘോഷമായി മാറിയിരുന്നു എന്നാൽ പുതിയ ക്ലസ്റ്ററുകളിൽ കൂടുതൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വാസ്തവത്തിൽ ഓപ്പൺ മാസ്സുകളും അത്പോലുള്ളവയും കടൽതീരത്ത് നടത്താൻ സഭ അവരുടേതായ ശ്രമങ്ങൾ നടത്തുന്നു അതിനാൽ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ പ്രത്യേക ആഘോഷങ്ങളെല്ലാം ക്രമേണ കുറഞ്ഞു കാരണം വ്യക്തിപരമായ തലത്തിൽ ആരാധനാലയങ്ങളിലേക്കും രാഷ്ട്രീയ യോഗങ്ങളിലേക്കും പ്രവേശനം കുറഞ്ഞു മുമ്പ് ഭർത്താവ് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ സ്ത്രീ ബോട്ട് കാണുമായിരുന്നു ഓ എന്റെ ഭർത്താവ് വരുന്നു ഭക്ഷണവുമായി ഭർത്താവിനെ കാത്തിരിക്കുമായിരുന്നു കാരണം അവൻ പട്ടിണി കിടക്കും പക്ഷേ ഇപ്പോൾ അവന് മാത്രമേഭർത്താവ് വന്നോഏത് സമയത്താണ് വരുന്നത് എന്നൊന്നും അവൾ അറിയുന്നില്ല അതിനാൽ തീർച്ചയായും ആ വ്യക്തി തിരികെ വരുമ്പോൾ അവനു ഭക്ഷണം കൊടുക്കാൻആരും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് വ്യക്തമായും നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരാൾ തിരികെ വരുമ്പോൾ കരയിലേക്ക് തിരികെ വരുമ്പോൾ അയാൾക്ക് വിശപ്പുണ്ടാവും അപ്പോൾ തീർച്ചയായും അത് കുടുംബ ബന്ധങ്ങളിൽ ചില പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ഒരുപക്ഷേ അവൻ വീട്ടിൽ പോകുമ്പോൾഅവൻ പറയും ഫാമിലിയുമായുള്ള എന്റെ ബന്ധങ്ങൾ ദുർബലപ്പെട്ടു ബന്ധങ്ങൾ ക്രമേണ കുറഞ്ഞു വരുന്നു നിങ്ങൾക്ക് ഏതുതരം വീടാണ് വേണ്ടതെന്ന് എൻജിഒകൾ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഇഷ്ടികയും കോൺക്രീറ്റും കൊണ്ടുള്ള വീട് വേണം കാരണം സ്വാധീനം കൂടുതലും സംഭവിക്കുന്നത് അടുത്തുള്ള നഗരപ്രദേശങ്ങളിൽ നിന്നാണ് അതാണ് എൻജിഒകൾ കൃത്യമായി നൽകിയത് എന്നാൽ ഇപ്പോൾ ഒരു സമൂഹത്തിന് പഴയ വീടാണ് നല്ലതെന്ന് അവർ മനസ്സിലാക്കുന്നു കാരണം താപപരമായി ഇത് കൂടുതൽ സുഖകരമാണ് ഇവിടെ സൂര്യൻ വളരെ ചൂടാണ് കൂടാതെ ഇപ്പോൾ അടുക്കളകളുടെ ഓറിയന്റേഷൻ അവർ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഭക്ഷണം കൊണ്ടുപോകണം അവരുടെ സംസ്കാരം അനുസരിച്ചു ഭക്ഷണം കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് പോലെ നേരത്തെ വീടുണ്ടായിരുന്നിട്ട് സുനാമിയിൽ വീട് തകർന്നിട്ട് ഇപ്പോൾ സർക്കാർ ഭൂമിയിൽ കയറി സർക്കാർ പണികഴിപ്പിച്ച വീട്ടിൽ താമസിക്കുന്നവർക്ക് അടുത്ത പത്ത് വർഷത്തേക്ക് പട്ടയം ലഭിക്കില്ല എന്നാൽ മുമ്പ് വീടില്ലാത്ത മറ്റുള്ളവർക്ക് ഇപ്പോൾ കുറച്ച് പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞുഎന്നിട്ട് അവർക്ക് പുതിയ വീട് ലഭിച്ചു അതിനാൽ അവർക്ക് പട്ടയം ലഭിച്ചു അതിനാൽ ഇത് പട്ടയം ലഭിക്കുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി എന്ന് അർഥം ഭൂമിയുടെയും വീടിന്റെയും ഉടമസ്ഥാവകാശവും കാരണം ഈ വീട് ഇപ്പോൾ വിൽക്കണമെങ്കിൽ ഈ ആളുകൾക്ക് വിൽക്കാൻ കഴിയില്ല പക്ഷേ മറ്റേ ആളുകൾക്ക് വിൽക്കാം അതിനർത്ഥം അത് ചില സ്വന്തം എന്ന ബോധം സൃഷ്ടിച്ചു മെയിന്റനെൻസ് ആസ്പെക്ട് നെ കുറിച്ചും ഇത് പറയുന്നു അതിനാൽ കുടുംബ ശൃംഖലകളുടെ ചലനാത്മകത കുടുംബങ്ങളെ ആശ്രയിചാണ് ഭർത്താവ് മരിച്ച ചില ചെറിയ കുടുംബങ്ങൾക്ക് അവൻ മാത്രമാതിരുന്നു ഏക ആശ്രയം പക്ഷേ പുതിയ വീടുണ്ടായിട്ടും ഉപജീവനത്തിനുള്ള സൌകര്യമില്ല അതിനാൽ കുടുംബ ചെലവുകൾക്കായി ഒരു ചെറിയ കടയ്ക്ക് വേണ്ടി സ്ത്രീ അവരുടെ വീടിന്റെ മുൻഭാഗം വികസിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ അടുക്കളകൾ വിപുലീകരിച്ചു രണ്ടാമത്തെ കേസ് ആയ തരംഗമ്പാടിയിലെ മൂന്ന് ക്ലസ്റ്ററുകൾ ആണ് അവിടെഒന്ന് ഡാനിഷ് കോളനിയാണ് മുസ്ലീങ്ങളും കൊളോണിയൽ പൂർവ വീടുകളും മത്സ്യത്തൊഴിലാളി സമൂഹവും ഇതാണ് രേണുകാദേവി ക്ഷേത്ര സ്ക്വയർ അടിസ്ഥാനപരമായി ഇതാണ് ടൂറിസം സർക്യൂട്ട് കാരണം ഇവിടെയാണ് ഡാൻസ്ബർഗ് കോട്ടയും നഗര കേന്ദ്രവും അപ്പോൾ ഇതാണ് ഹൈവേ ഇത് ഇങ്ങനെ പോകുന്നു സുനാമിയിൽ നാശനഷ്ടം സംഭവിച്ച മാസിലാമണി നാദർ ക്ഷേത്രമാണിത് സുനാമിക്ക് ശേഷമുള്ള നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ നിരവധി കുര്യാക്കോസ് ആർക്കിടെക്റ്റും അതുപോലെ തന്നെ SIFFS ഏജൻസിയും ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായി പ്രവർത്തിച്ചിട്ടുണ്ട് അവർ ഈ സ്ഥലം തിരിച്ചറിഞ്ഞു കൂടുതൽ പങ്കാളിത്തത്തോടെയുള്ള സമീപനത്തിൽ അവർ ഭവന നിർമ്മാണം നടത്താൻ ശ്രമിച്ചു അതിനാൽ ഒരേ അയൽക്കാരെ ഒരേ ക്ലസ്റ്ററിലാക്കാനുള്ള ചില ശ്രമങ്ങൾ പോലും അവർ നടത്തി തെരുവുകളുടെ വിവിധ ടൈപ്പോളജികൾ ഞാൻ രേഖപ്പെടുത്തി സെറ്റിൽമെന്റിനുള്ളിലെ വിവിധ തരത്തിലുള്ള കണക്റ്റിവിറ്റി പാറ്റേണുകളും കെട്ടിടത്തിന്റെ വിശദാംശങ്ങളും എല്ലാം കൂടാതെ മെന്റൽ മാപ്പുകളും എടുത്തു നിങ്ങൾക്കറിയാമോ കോവളം ആളുകൾ എങ്ങനെ സങ്കൽപ്പിക്കുകയും സ്ഥലങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതിന്റെ മെന്റൽ മാപ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ തരങ്കമ്പാടിയിൽ അത് സാധ്യമായില്ല കാരണം ഞാൻ അവരുടെ മെന്റൽ മാപ് വരയ്ക്കാൻ ചില പേപ്പറുകൾ നൽകിയപ്പോൾ അവർക് വരയ്ക്കാൻ കുറച്ച് മടിച്ചു അവരുടെ കൈ വിറക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചെയ്തത് SIFFs വികസിപ്പിച്ചെടുത്ത ഭൂപടങ്ങൾ എടുത്തു അതിൽ ഒന്ന് സുനാമിക്ക് മുമ്പുള്ളതും രണ്ടാമത്തേത് സുനാമിക്ക് ശേഷമുള്ളതാണ് ഇത് പുതുതായി സ്ഥലം മാറ്റിയ വീടുകളാണ് ഇത് രേണുക ദേവി ക്ഷേത്രമാണെന്ന് ഞാൻ പറയുന്നു പിന്നെ ഓ ഇത് ക്ഷേത്രമാണെങ്കിൽ ഇത് എന്റെ വീടാണ് എന്ന് അവർ പറഞ്ഞു പിന്നെ എല്ലാവരും എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവൻ പറയുന്നു എന്റെ വീട് ഇങ്ങനെയാണ് ഞാൻ എന്റെ കുട്ടികളെ ഈ കൊളോണിയൽ ഏരിയയിലെ ക്രിസ്ത്യൻ സ്കൂളിൽ കൊണ്ടുപോയി പിന്നെ ഞാൻ ഇവിടെയുള്ള ഐസ് ഫാക്ടറിയിൽ പോയി പിന്നെ ഞാൻ മാർക്കറ്റിൽ പോയി മത്സ്യം വിൽക്കുന്നു ഞാൻ ഹാർബറിൽ പോകുന്നു ഇതിനെ പ്രിൻസസ്സ് സ്ട്രീറ്റ് എന്ന് വിളിക്കുന്നു എന്നാൽ സ്ഥലം മാറ്റിയ സന്ദർഭത്തിൽ ഇത് എന്റെ വീടാണ് എന്നിട്ട് ഞാൻ ഒരു ലാൻഡ്മാർക്ക് കൊടുക്കുന്നു ഇതാണ് സ്കൂൾഞാൻ പറഞ്ഞു ഓ ഇത് സ്കൂളാണ് അപ്പോൾ അവർ പറഞ്ഞു അതെ ഇങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് ഇവിടെയാണ് ഹാർബറിലേക്കുള്ള യാത്ര ഇന്റർവ്യൂകളിൽ പ്രീ കൊളോണിയലിൽ നിന്നുള്ളവർ വരെ പറഞ്ഞുതുടങ്ങി ഞങ്ങൾ ഇവിടെ സന്തുഷ്ടരല്ല കാരണം എന്റെ സുഹൃത്തുക്കളിൽ അധികമൊന്നും അവശേഷിക്കുന്നില്ലഅവർ പോയിഞങ്ങൾ പോയില്ല ഇവിടെ വളരെ വിരസമാണ് അതിനാൽ അവർ അവരുടെ വീടുകൾ വിൽക്കാൻ തുടങ്ങി അവർ സമീപ പ്രദേശങ്ങളിലേക്ക് മടങ്ങുകയാണ് യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഇപ്പോഴും ഒരേ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ തമ്മിൽ എന്ത്കൊണ്ടാണ് അവർ ഇടപഴകാത്തത് ഈ ഭൂപടം എനിക്ക് കാണിച്ചുതന്നു എന്തുകൊണ്ടാണ് അവർ അങ്ങനെ എന്ന് കാരണം നേരത്തെ മൂന്ന് സമുദായങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരേയൊരു തെരുവ് ഇതാണ് എന്നാൽ ഇപ്പോൾ അവർ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുകൂടി നടക്കുന്നു സ്കൂളിലേക്ക് മാത്രം അതായത് അവർ ഇതിലൂടെ നടക്കുന്നില്ല ഇതിനർത്ഥം കാൽനട പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ചില ആശയവിനിമയ വിടവ് സൃഷ്ടിക്കുകയും അത് ചില സോഷ്യൽ നെറ്റ്വർക്കുകളെ ദുർബലപ്പെടുത്തുകയും ചെയ്തു പിന്നെ ലൈറ്റ്ഹൌസ് കുപ്പമിൽഎന്റെ പഠനകാലത്ത് അത് പ്രോസസ്സിൽ ആയിരുന്നു അത് ദളിത് ആണ്11 ദ്വീപ് 11 ഗ്രാമങ്ങൾ പുള്ളിക്കാട്ട് തടാകത്തിനടുത്തുള്ള ഒരു ദ്വീപിലാണ് താമസമാക്കിയത് അതിനാൽ ഞാൻ എല്ലാ ദിവസവും ബോട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട്ട്ടേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു തുടർന്ന് ഞാൻ ഒരു ഗ്രൂപ്പുമായി കുറച്ച് സമയം ചിലവഴിച്ചു ഗ്രൂപ്പുകളും മറ്റും ആയി ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവർക്ക് ഒരു സ്ഥലംമാറ്റ ഓപ്ഷൻ വാഗ്ദാനം ചെയ്തെങ്കിലും അവർ അത് തിരഞ്ഞെടുത്തില്ല അവർ അവിടെ താമസിച്ചു അവർക്ക് അവിടെ താമസിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അവർ ഇഷ്ടിക കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും ഉള്ള വീടുകൾ തേടി പോയിരിക്കുന്നു അതിനാൽ അഭിപ്രായം പറയാനുള്ള സമയം ആയിട്ടില്ല എന്നാൽ പിന്നീട് രണ്ട് കണ്ടെത്തലുകളിൽ നിന്ന്ആ രണ്ട് മൂന്ന് വർഷങ്ങളിൽ ഉണ്ടായ അതിശയകരമായ പ്രതികരണങ്ങൾ കാണാൻ കഴിഞ്ഞു ആളുകൾ വിപുലീകരണങ്ങൾ നടത്തിപിന്നീട് കയ്യേറ്റങ്ങളും നിർമ്മിക്കാൻ തുടങ്ങി ഭാഗ്യവശാൽ ഈ രണ്ടുപേർക്കും ഒരു ലോട്ടറി രീതിയിൽ ലഭിച്ചതാണ് അവർക്ക്രണ്ട് സഹോദരന്മാർക്ക് അടുത്തടുത്തുള്ള ഒരു വീട് ലഭിച്ചു അതിനാൽ അവർ എന്താണ് ചെയ്തത് അവർ ഒരു ഒറ്റ മേൽക്കൂരയായി നീട്ടി സ്വന്തമെന്ന വികാരം കാണിക്കാൻ ആളുകൾ പിന്നിലെ അടുക്കളകൾ വികസിപ്പിക്കാൻ തുടങ്ങി അവർക്ക് പൊതുസ്ഥലങ്ങളില്ല അതിനാൽ അവർ അയൽപക്കത്തുള്ള ഭൂമി കയ്യേറാൻ തുടങ്ങി സാമൂഹികവൽക്കരണ പ്രക്രിയയ്ക്കായി അവർ കുട്ടികൾക്കായുള്ള ആക്ടിവിറ്റികൾ നടത്താൻ തുടങ്ങി സുനാമിയിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾഒരു ചെറിയ കട തുടങ്ങാനായി വീടിന്റെ മുൻവശം വികസിപ്പിച്ചു ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയ വീടുകളിൽ ടോയ്ലറ്റ് വരെ നൽകി അതിനെ അവർ പ്രാർത്ഥനക്കുള്ള പൂജാ മുറികൾ ആക്കി മാറ്റി ശരിവാസ്തു പ്രകാരം ഇത് ഇവിടെയായിരിക്കണമെന്ന് അവർ വിശ്വസിക്കുന്നു അവർ അതിനെ മാറ്റി ടോയ്ലറ്റിനെ പുറത്തേക്ക് മാറ്റി അങ്ങനെ നോക്കുമ്പോൾ കെട്ടിട രൂപകല്പന തലം പോലും സമൂഹത്തിന് വേണ്ട തരത്തിൽ നന്നായി ചിന്തിച്ചിട്ട് ചെയ്തതല്ല അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സിനിമ കാണിക്കും ഇത് യഥാർത്ഥത്തിൽ ഫീൽഡിൽ നിന്നുള്ള കുറച്ച് പ്രതികരണങ്ങളെ കുറിച്ച് പറയും അങ്ങനെ ഇത്തരം ദുരന്താനന്തര അനുഭവങ്ങളോട് ആളുകൾ എങ്ങനെ പ്രതികരിച്ചു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കും

ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകുടുംബ ബന്ധത്തിൽ ഉണ്ടാവുന്ന ചെറിയ അകൽച്ചയുടെ ആസ്പെക്ട് പോലും അതായത് സാഹോദര്യം ബന്ധുത്വം മതം ഇതൊക്കെ എങ്ങനെ പ്രാധാന്യമർഹിക്കുന്നു എന്നും ആളുകൾ എങ്ങനെ മാറ്റവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി എന്നതിനെക്കുറിച്ചും ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോഒരു വിനാശകരമായ മാറ്റം എട്ട് വർഷത്തിന് ശേഷം ഞാൻ അതേ സൈറ്റ് വീണ്ടും സന്ദർശിച്ചു എന്റെ ഗവേഷണം പൂർത്തിയായെങ്കിലും ഈ സ്ഥലങ്ങൾ എങ്ങനെയെന്ന് അറിയാൻ ഞാൻ അവിടെ സന്ദർശിച്ചു തുടക്കത്തിൽ ഈ വീടുകൾ അവർക്ക് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ മെയിൻ കോവളത്ത് അതേ വീടുകൾ പരിഷ്ക്കരിച്ചിരിക്കുന്നു പുതിയ ഹൌസിംഗ് ക്ലസ്റ്ററുകളിൽ മുമ്പ് അവർക്ക് സമീപത്ത് പള്ളിയോ മതപരമായ കെട്ടിടമോ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ ഒരു പൊതുസ്ഥലത്തെ പ്രതിനിധീകരിക്കാൻ ഒരു പള്ളി മണി ഗോപുരം നിർമ്മിക്കാൻ തുടങ്ങി അതേ മാതൃകയിലും ഒരേ നിറത്തിലും അതിനാൽ വാസ്തുവിദ്യാ ശൈലിയും ഇവിടെ പ്രതിഫലിച്ചു അവർ വീണ്ടും ദക്ഷിണേന്ത്യയുടെ പരമ്പരാഗത ഘടകങ്ങൾ തിരികെ കൊണ്ടുവന്നു അതിന്റെ മേലെ ടൈൽ മേൽക്കൂരയും ഒരു ചെറിയ പോർട്ടിക്കോയും ആയി ഒപ്പം നിറങ്ങളും കടും നിറങ്ങളുംപ്രായമായവർക്കായി ബഫർ ഇടങ്ങളുടെ ഇടയിലെ മിച്ചം വരുന്ന ഇടങ്ങൾ എന്തൊക്കെയായാലുംഅവർ വല കൊണ്ട് മൂടി തീരത്തെ മണലിൽ പ്രാദേശിക വസ്തുക്കൾ കൊണ്ട് ചെറിയ ചെറിയ പൂജാമുറികൾ പണിയാൻ തുടങ്ങി അങ്ങനെ ആളുകൾ മാറ്റവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി അതിനാൽ ഒരാൾക്ക് ഈ മാറ്റ പ്രക്രിയ മനസ്സിലാക്കണമെങ്കിൽ അത് നമുക്ക് ഒരു വർഷത്തെ ജോലിയിൽ നിന്നോ രണ്ട് വർഷത്തെ ജോലിയിൽ നിന്നോ മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞത് എട്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ കാണുന്നത് ഞാൻ സന്ദർശിച്ചപ്പോൾ എനിക്ക് ഒരു വലിയ മാറ്റം കാണാൻ കഴിഞ്ഞു അതിനാൽ അടിസ്ഥാനപരമായ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ നിഗമനത്തിൽ എത്തുന്നത് എന്ത് കൊണ്ടാണ് കോർ ഡ്വെല്ലിംഗ് കൺസെപ്റ്റ് പരാജയപ്പെട്ടത് പല കേസുകളിലും സ്വീകാര്യമല്ലാത്ത യൂണിഫോം സ്റ്റാൻഡേർഡ് ഫോമുകൾ ആണ് ഒന്നാമത്തെ കാര്യം കാരണം ഇത് ഫാമിലി നെറ്റ്വർക്കുകൾ ഫാമിലി യുടെ വലുപ്പം ഫാമിലി ഘടനകൾ വ്യക്തിപരമായും കൂട്ടായും ഉള്ള ആവശ്യങ്ങളിൽ ദുരന്തത്തിന് മുമ്പും ശേഷവും ഉണ്ടായ വ്യത്യാസം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഒരു ഭർത്താവ് സുനാമിയിൽ കൊല്ലപ്പെട്ടു തുടർന്ന് ഭാര്യയും കുട്ടികളും ഭവനരഹിതരും ഉപജീവനമാർഗം ഇല്ലാത്തവരും ആയി അതിനാൽ ഇത് എന്തുചെയ്യണം അവിടെയാണ് ഒരാൾ കുടുംബത്തിന്റെ ഡൈനാമിക് ആസ്പെക്റ്റും അവന്റെ സൌഹൃദവും അതിന്റെ ശൃംഖലയും നോക്കേണ്ടത് സങ്കൽപ്പിക്കുക ആ വീഡിയോയിലെ സ്ത്രീയെക്കുറിച്ച് അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളുടെ വീടിനോട് ചേർന്ന് ഒരു വീട് നൽകിയിരുന്നെങ്കിൽ എന്ന് സങ്കൽപ്പിക്കുക എങ്കിൽ അവൾ കട നടത്തുമ്പോൾ അവളുടെ കുട്ടികളെ നോക്കാൻ അവൾക്ക് ചെറിയ പിന്തുണ ലഭിക്കുമായിരുന്നു അതിനാൽ ആ രീതിയിൽ ഒരാൾ നോക്കുമ്പോൾ ഇവയൊക്കെ വളരെ മൈക്രോ ലെവലിൽ ഉള്ള മാനേജ്മെന്റ് പ്രശ്നങ്ങളാണ് പ്രധാന പാർപ്പിട ആസ്പെക്ക്റ്റുകളുടെ ഡിസൈൻ രൂപകൽപ്പന മതപരമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വേണ്ടത്ര അഭിസംബോധന ചെയ്തിട്ടില്ല ഉദാഹരണമായി പൂജാമുറികൾ മതപരമായ കെട്ടിടങ്ങൾ അവ എങ്ങനെയാണ് പരിഷ്ക്കരിച്ചിരിക്കുന്നത് ഓറിയന്റേഷന്റെ സ്ഥാനം ഉൾപ്പെടെ അത് നിവാസികളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു നമ്മൾ ലൊക്കേഷനെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു സെറ്റിൽമെന്റ്എന്ന നിലയിൽ ഒരു മാക്രോ ലെവൽ ലേഔട്ടിനെ കുറിച്ചും ബ്ലോക്കിലെയും പ്ലോട്ടിലെയും പാർപ്പിടങ്ങളുടെ ഓറിയന്റെഷനെ കുറിച്ചും പറയുന്നു ആധുനിക സാമഗ്രികളുടെ ഉപയോഗം അവയുടെ താപ സൌകര്യങ്ങളിലും ദീർഘകാല പരിപാലനത്തിലും സ്വാധീനം ചെലുത്തി ഇവിടെ അർബൻ ഡിസൈൻ പ്രശ്നങ്ങൾ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും കുറിച്ച് പറയുന്നുഇതിനെ കുറിച്ചുംസ്വകാര്യതയെക്കുറിച്ചും ഡിസൈനർമാർ വേണ്ടത്ര ചിന്തിച്ചിട്ടില്ല കൂടാതെ ചില പൊതുവായ വികസന പ്രശ്നങ്ങളുണ്ട് ദുരന്തത്തിനു മുമ്പും ശേഷവും ഉള്ള ഈ സമീപനങ്ങൾ സാംസ്കാരിക സജ്ജീകരണത്തെ അടിസ്ഥാനമാക്കി ഓരോ സ്ഥലത്തും സംസ്കാരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു സഭയിൽ അവർ അത് സജ്ജീകരിക്കുന്നുഒരു സർക്കാർ ബേസ് സജ്ജീകരണത്തിൽ അത് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു ഒരു എൻജിഒ ബേസ് സജ്ജീകരണത്തിൽ അത് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു അതിനാൽ ഈ വികസന ഗ്രൂപ്പുകൾക്കെല്ലാം സാംസ്കാരിക ആസ്പെക്ട് അഭിസംബോധന ചെയ്യാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു പൊതു മെത്തഡോളജിക്കൽ സമീപനം സ്ഥാപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം വികസനം ഒരു സംസ്കാര നിർദ്ദിഷ്ടമാണ് കെട്ടിട രൂപകല്പനയും ആസൂത്രണ മാർഗ്ഗനിർദ്ദേശങ്ങളും പരമ്പരാഗത വാസസ്ഥലങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾ വേണ്ടത്ര അഭിസംബോധന ചെയ്യുന്നില്ല കൂടാതെ അയൽപക്കം എന്ന ആശയം നന്നായി അഭിസംബോധന ചെയ്യപ്പെടുന്നില്ല കാരണം നമ്മൾ 30 വർഷം ചില അയൽക്കാരുടെ കൂടെ താമസിച്ചു പെട്ടെന്ന് നിങ്ങളെ എവിടെയെങ്കിലും മാറ്റിതാമസിപ്പിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക അതിനാൽ പങ്കാളിത്ത സമീപനങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് പ്രാദേശിക അറിവ് നേടാനുള്ള കഴിവില്ലായ്മയും ഒരാൾ മനസ്സിലാക്കണം കാരണം ഇത് വികസനത്തിന്റെ ഒരു ധാരണയാണ് വിദേശ ഏജൻസികൾക്ക് ഒന്നും അറിയില്ലെന്ന് ഈ ആളുകൾ കരുതുന്നു ആ വിഭവങ്ങൾ ടാപ്പുചെയ്യാൻ ആവശ്യമായ പല കാര്യങ്ങളും അവർക്കറിയാമെന്ന് ഒരാൾ മനസ്സിലാക്കണം തടസ്സങ്ങൾ ഇവിടെയാണ് ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളും ആശയവിനിമയം നടത്തുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഭൂവിനിയോഗംഉടമസ്ഥാവകാശംകാലാവധി എന്നിവയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുമായി ചർച്ചചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ ആഘാതങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ആഘാതങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അവ ഈ നിർമ്മിത ചുറ്റുപാടുകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും പോലെയുള്ള കാര്യങ്ങൾ ഈ ഹ്രസ്വ ഡയഗ്രം കാണിക്കുന്നു അതിനാൽ ഈ ഗവേഷണം പുനർനിർമ്മാണ പ്രക്രിയയെ രണ്ട് തരത്തിൽ ചർച്ചചെയ്തു ഒന്ന് പോസിറ്റിവിസ്റ്റ് രീതിയിലുള്ളതാണ് അവിടെ ഭൌതിക അകലങ്ങൾ വർദ്ധിച്ചു ചില പ്രവർത്തനങ്ങൾ ഇനി സാധ്യമല്ല തുടർന്ന് കുടുംബവും സമൂഹവും കഷ്ടപ്പെടുന്നു അതേസമയം വികസന ഏജൻസികൾ ഒരു ഇൻസ്ട്രുമെന്റൽ തലത്തിലാണ് കൂടുതലും പ്രവർത്തിക്കുന്നത് ദുർബലതയുടെ ചർച്ചയിൽ താൽക്കാലിക തലത്തിൽ നേരിട്ടുള്ള ഫിസിക്കൽ ബന്ധങ്ങളിൽ നിന്ന് ഭരണം ഏജൻസികൾ എന്നിവയിലേക്ക് കൂടുതൽ നീങ്ങുന്നു എന്നാൽ രണ്ടാമത്തെ കാഴ്ചപ്പാട് കൾച്ചറൽ ആന്ത്രോപോളജി യിൽ നിന്നുള്ള ചർച്ചകളാണ് കോൺസെപ്റ്റ് ഓഫ് ഹബീറ്റസ് നെ കുറിച്ചാണ് ഇത് പറയുന്നത് അതായത് ഹാബിറ്റും ഹാബിറ്റാറ്റും തമ്മിലുള്ള ബന്ധം അത് നിർണയവാദം അല്ലവ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യസ്ത പ്രതികരണങ്ങൾക്ക് കീഴിൽ ഈ മുഴുവൻ പ്രക്രിയയും അനിവാര്യമായും മാറിയിട്ടുണ്ട് അതിനാൽ പല കേസുകളിലും ഭീഷണിയുണ്ടെന്നും അത്തരം വിനാശകരമായ മാറ്റങ്ങൾ ദുർബലത വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടെന്നും നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പൊരുത്തപ്പെടുത്തൽ നോക്കുമ്പോൾ ചില കേസുകളിൽ നല്ല പ്രതികരണം കണ്ടിട്ടുണ്ട് അതിനാൽ ഈ മുഴുവൻ നിരീക്ഷണവും പോസിറ്റിവിസ്റ്റ് സമീപനത്തിൽ നിന്ന് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലേക്ക് വളർന്നതാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കൽ സ്പേഷ്യൽ ഫീൽഡിനായി പ്രവർത്തിക്കുന്ന സാമൂഹിക ഘടനയെ നോക്കുന്നു അതായത് ഇവിടെ തിയറി ഓഫ് റെസ്പോൺസീവ് എൻവയോൺമെന്റ് പ്രത്യേകിച്ച് ബെന്റ്ലിയുടെ വർക്ക്Bentleys work ഇത് യഥാർത്ഥത്തിൽ സ്പേഷ്യൽ ഘടകങ്ങളെ അലട്ടി ഒന്ന് വരുമാനത്തിന്റെയും ഉപജീവനത്തിന്റെയും പ്രശ്നങ്ങളെ പിന്തുണയ്ക്കുന്നതോ അല്ലാത്തതോ ആയ ലേഔട്ടിനെ ഉപകരണപരമായും പ്രവർത്തനപരമായും വീക്ഷിക്കുന്നു മാത്രമല്ല ഇത് സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിന്റെ വിവിധ പ്രകടനങ്ങളെ പിന്തുണയ്ക്കുന്ന സോഷിയോ സ്പേഷ്യൽ നിർമ്മിതിയായും വ്യാഖ്യാനിക്കാം അത് കുടുംബവും മതവും രാഷ്ട്രീയവും സാമൂഹികവും അയൽപക്കവുമായുള്ള ഇടപെടലുകളാകാം അതിനാൽ അവിടെയാണ് നമ്മൾ തിയറിയും തിരികെ കൊണ്ടുവരുന്നത് അതിനാൽ ഈ പഠനങ്ങളിലൂടെ പുറത്തുവന്ന ചില ശുപാർശകളുടെ രത്നച്ചുരുക്കം അതായത് നമുക്ക് എങ്ങനെ ഗ്ലാസ് റൂട്ട് ലെവൽ ഗവേണൻസ് ശാക്തീകരിക്കാംപങ്കാളിത്ത തലത്തിലുള്ള സമീപനങ്ങൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് ഇവിടെയാണ്കൂടാതെ പ്രാദേശിക ഭരണസമിതികളുടെ ഉചിതമായ പരിശീലനവും അവബോധവും താഴേത്തട്ടിൽ നമുക്ക് എങ്ങനെ പരിശീലനം നൽകാം എന്നതിനോടൊപ്പം സിനിമ മാധ്യമ ആശയവിനിമയ രീതികളും പ്രോത്സാഹിപ്പിക്കപ്പെടണം കാരണം നിങ്ങൾക്കറിയാം അവർ എന്താണ് ഡോക്യുമെന്റ് ചെയ്തത് എന്ന് ജനങ്ങളെ കാണിക്കേണ്ടതുണ്ട് ഒരു സിനിമ എന്നത് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സമീപനമാണ് കാരണം ഞാൻ ഗവേഷണം ആരംഭിച്ചപ്പോൾ എനിക്ക് മാപ്പിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല നിലവിലുള്ള സെറ്റിൽമെന്റുകൾ വികസന പ്രശ്നങ്ങൾ ഏത് തരത്തിലുള്ള സ്ഥലമാറ്റമാണ് സംഭവിച്ചത് ഇവയൊന്നും ഇവിടെ ഇപ്പോൾ GIS പോലുള്ള സാങ്കേതികവിദ്യകളും മറ്റ് നിരവധി പുതിയ ഉപകരണങ്ങളും വിപണിയിൽ വന്നിരിക്കുന്നു അതിനാൽ ഒരാൾക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയും അത് സമൂഹങ്ങളെ അറിയിക്കുകയും വേണം അതിനാൽ നിങ്ങൾ ശാസ്ത്രത്തെയും സമൂഹത്തെയും ഒരുമിച്ച് കൊണ്ടുവരണം സെക്കൻഡറി സ്കൂളുകളുടെയും നിർമ്മിത പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട മറ്റ് സ്കൂളുകളുടെയും പാഠ്യപദ്ധതിയിൽ ദുരന്തനിവാരണ പാഠങ്ങൾ ഉൾപ്പെടുത്തുക അതിനാൽ അത് ദുരന്തസമയത്ത് മാത്രമല്ല നോക്കേണ്ടത് ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച് ദീർഘകാല സമീപനം ഉണ്ടാവണം ലോക്കലും റീജിയണലും ആയ ആശങ്കകളോടെ കെട്ടിടനിർമ്മാണവും ആസൂത്രണ നിയന്ത്രണങ്ങളും വികസിപ്പിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ മുഴുവൻ പ്രവർത്തനത്തെക്കുറിച്ചും ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഇത് വളരെ പഴയ വർക്ക് ആയിരുന്നു എന്നാൽ പിന്നീട് എന്റെ തുടർന്നുള്ള വർക്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും നിങ്ങളുടെ റഫറൻസിനായുള്ള ചില റഫറൻസുകൾ ഇവയാണ് വളരെ നന്ദി